ഈ സെഷനിലേക്ക് സ്വാഗതം ഇതുവരെ ഞങ്ങൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് നോക്കുകയായിരുന്നു ഞങ്ങൾ കുറച്ച് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റ് തന്ത്രങ്ങൾ നോക്കിയിരുന്നു എന്നാൽ തുല്യത ക്ലാസ് ടെസ്റ്റ് കേസുകൾ നോക്കി ഞങ്ങൾ പ്രത്യേക മൂല്യ പരിശോധന കേസുകൾ പരിശോധിച്ചു തീരുമാന പട്ടിക അടിസ്ഥാനമാക്കിയുള്ള ടെസ്റ്റ് കോസ് ഇഫക്റ്റ് ഗ്രാഫിംഗ് എന്നിവയുടെ രൂപത്തിൽ കോമ്പിനേറ്ററി ടെസ്റ്റ് പരിശോധന ഞങ്ങൾ പരിശോധിച്ചു ഇപ്പോൾ നമുക്ക് ഒരു ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് കൂടി നോക്കാൻ ശ്രമിക്കാം ഇൻപുട്ടിന്റെ എണ്ണം വലുതാകുമ്പോൾ ബാധകമായ ഒരു കോമ്പിനേറ്ററൽ ടെസ്റ്റിംഗ് ആണ് എല്ലാ ജോഡി ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ജോഡി തിരിച്ചുള്ള ടെസ്റ്റിംഗ് എന്നറിയപ്പെടുന്നത് നമുക്ക് ജോഡി തിരിച്ചുള്ള ടെസ്റ്റിംഗ് തന്ത്രം നോക്കാം പല പ്രാവശ്യം നമുക്ക് പരാമീറ്ററുകൾ ഉള്ളതും ഓരോ പാരാമീറ്ററും ഒരു ബൂലിയൻ ആണെങ്കിൽ അല്ലെങ്കിൽ അതിന് നിരവധി മൂല്യങ്ങൾ എടുത്തേക്കാവുന്നതുമായ സാഹചര്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ സൂചിപ്പിക്കുന്നതുപോലെ ഒരു വേഡ് പ്രോസസ്സറിലെ ഈ ഫോണ്ട് ക്രമീകരണം നമുക്ക് നോക്കാം ഇവയിൽ ഓരോന്നും സ്വതന്ത്രമായി നമുക്ക് ഓണാക്കാനോ ഓഫാക്കാനോ സ്ട്രൈക്ക് ചെയ്യാനോ സൂപ്പർസ്ക്രിപ്റ്റ് സബ്സ്ക്രിപ്റ്റ് സ്മോൾ ക്യാപ്സ് മുതലായവയിലൂടെ ഇരട്ട സ്ട്രൈക്ക് ചെയ്യാനോ കഴിയും അതിനാൽ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ 1 ഇവിടെ എന്നിങ്ങനെയുള്ളവ തിരഞ്ഞെടുക്കാം മാത്രമല്ല ഫോണ്ട് തരം ഫോണ്ട് ശൈലി ഫോണ്ട് ശൈലി എന്നിവ നിങ്ങൾക്ക് ഇവിടെ തിരഞ്ഞെടുക്കാം പല വലുപ്പങ്ങളും 30 40 ആകാം ഇപ്പോൾ സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും ഞങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ അത് ഒരു വലിയ സംഖ്യയായിരിക്കും ഉദാഹരണത്തിന് ഇവ 4 3 7 3 10 ആണെന്ന് നമുക്ക് പറയാം അതിനാൽ 10 ഇൻപുട്ട് നമുക്ക് ചില കോമ്പിനേഷനുകൾ മാത്രം പരിശോധിക്കാനാകുമെങ്കിലും സ്വതന്ത്രമായി നമുക്ക് അവയെ ലാളിത്യത്തിനായി പരിശോധിക്കാനാകുമെന്ന് അനുമാനിക്കാം ഒന്നുകിൽ ഒരു സൂപ്പർസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് തുടങ്ങിയവ ലാളിത്യത്തിനായി നമുക്ക് പരിശോധിക്കാനാകുമെന്ന് അനുമാനിക്കാം ഇൻപുട്ട് പരാമീറ്ററുകളുടെ സാധ്യമായ കോമ്പിനേഷനുകൾ ഇവിടെ നൽകാം സാധ്യമായ ടെസ്റ്റ് കേസുകളുടെ എണ്ണം ഇത്രമാത്രം ആവശ്യമാണ് ഈ മൂല്യങ്ങൾ 2 മുതൽ പവർ 10 അല്ലെങ്കിൽ 1024 വരെയാണ് എന്നാൽ അതോടൊപ്പം നമ്മൾ ഇവിടെ 10 ഉണ്ടെന്ന് കരുതുകയാണെങ്കിൽ ഫോണ്ട് നിറവും പരിഗണിക്കണം അല്ലെങ്കിൽ ഫോണ്ട് തന്നെ പരിഗണിക്കണം ഇവിടെ 10 ഉം ഇവിടെയും ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം ഈ 3 ന് 10 മൂല്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് അനുമാനിക്കാം ലാളിത്യത്തിന് ഇവിടെ കൂടുതൽ ഉണ്ട് നമുക്ക് 10 വീതം അനുമാനിക്കാം അതിനാൽ നമ്മൾ പവർ 3 വരെ പരിഗണിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് 1000 ന് തുല്യമാണ് അതുപോലെ തന്നെ ഇവിടെയും അതിനോട് യോജിക്കുന്ന കോമ്പിനേഷനുകളും ഉണ്ട് അതിനാൽ ഇതും ഇതും പരിഗണിച്ച് യാഥാസ്ഥിതികമായി 10 സാധ്യമായ മൂല്യങ്ങൾ ഇവിടെയുണ്ടെന്ന് കരുതുക ഇത് 1024 ആയി 1000 ആയി മാറുന്നു ഇത് ഏകദേശം ഒരു ദശലക്ഷം മൂല്യങ്ങളാണ് അതിനാൽ ഇത് വളരെ കൂടുതലാണ് സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും നമുക്ക് ശരിക്കും പരീക്ഷിക്കാൻ കഴിയില്ല 1 സ്ക്രീൻ പരിശോധിക്കുന്നതിനായി ഈ ദശലക്ഷക്കണക്കിന് കോമ്പിനേഷനുകൾ പ്രവർത്തിക്കുന്ന ടെസ്റ്ററുകൾ ഞങ്ങൾക്ക് ശരിക്കും ഉണ്ടായിരിക്കില്ല അതിനാൽ എന്താണ് ബദൽ അതിനാൽ ജോഡി തിരിച്ചുള്ള പരിശോധനയെക്കുറിച്ച് അതാണ് നമുക്ക് എൻ ഇൻപുട്ടുകളുണ്ടെന്നും ഓരോ ഇൻപുട്ടിനും ചില മൂല്യങ്ങൾ എടുക്കാം ചില സാധുവായ മൂല്യങ്ങൾ 3 ചിലത് 2 എടുക്കാം ചിലത് 5 സാധ്യമായ മൂല്യങ്ങൾ എടുക്കാം അങ്ങനെ സിസ്റ്റത്തിന് ഇല്ലെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു സംസ്ഥാനം ഈ സാധ്യമായ കോമ്പിനേഷനുകൾ നൽകുമ്പോൾ സിസ്റ്റം എസ് എല്ലായ്പ്പോഴും ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നു അല്ലാത്തപക്ഷം പ്രശ്നം കൂടുതൽ സങ്കീർണമാവുകയും അത് നമുക്ക് പരിഹരിക്കാനാവുകയും ചെയ്യും എന്നാൽ ആദ്യം പ്രശ്നം സംസ്ഥാന സ്വതന്ത്രമാണെന്ന ഈ ലളിതമായ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് ശ്രമിക്കാം ഞങ്ങൾ പരീക്ഷിക്കുന്ന സിസ്റ്റം സംസ്ഥാന സ്വതന്ത്രമാണ് തുടർന്ന് മൂല്യങ്ങളുടെ സംയോജനത്തെ ആശ്രയിച്ച് സോഫ്റ്റ്വെയറിൽ ബഗുകൾ ഉണ്ടാകാം N വലിയ 20 30 എന്നിങ്ങനെയാണെങ്കിൽ സാധ്യമായ എല്ലാ മൂല്യങ്ങളും പരിശോധിക്കാൻ കഴിയാത്തവിധം കോമ്പിനേഷനുകളുടെ എണ്ണം വളരെ കൂടുതലാണ് അതിനാൽ 10 12 അല്ലെങ്കിൽ 20 ടെസ്റ്റ് കേസുകൾ ഉപയോഗിച്ച് ഫലപ്രദമായ പരിശോധന നടത്താൻ ഞങ്ങൾക്ക് എങ്ങനെ ടെസ്റ്റ് കേസുകളുടെ എണ്ണം കുറയ്ക്കാം എന്നിട്ടും നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും ദശലക്ഷക്കണക്കിന് ടെസ്റ്റ് കേസുകൾ പോലെ ഏതാണ്ട് ബഗുകൾ കണ്ടെത്താൻ കഴിയും അതിനാൽ ഇത് കോമ്പിനേറ്ററി ടെസ്റ്റിംഗിനെക്കുറിച്ചും ഇവിടെ പ്രധാന നിരീക്ഷണമാണ് ഒരു പ്രോഗ്രാം 30 40 പാരാമീറ്ററുകൾ ഉപയോഗിച്ച് എഴുതുമ്പോൾ അത് ഒരു ജോടി പരാമീറ്ററുകളുടെയോ ഒരൊറ്റ പാരാമീറ്ററിന്റെയോ അല്ലെങ്കിൽ 3 പാരാമീറ്ററുകളുടെയോ ചില പ്രത്യേക കോമ്പിനേഷനുകളാണ് അതിനാൽ 3 പരാമീറ്ററുകൾ നിർദ്ദിഷ്ട മൂല്യം എടുക്കുന്ന ഏതെങ്കിലും 3 പരാമീറ്ററുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും 2 പാരാമീറ്ററുകൾ ചില നിർദ്ദിഷ്ട മൂല്യം എടുക്കുകയോ അല്ലെങ്കിൽ ഒരു പാരാമീറ്റർ ഒരു പ്രത്യേക മൂല്യം എടുക്കുകയോ ചെയ്താൽ മാത്രമേ പ്രശ്നം സംഭവിക്കുകയുള്ളൂ സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും ഗവേഷകർ ധാരാളം സോഫ്റ്റ്വെയറുകൾ പരീക്ഷിച്ചുവെന്നും നിങ്ങൾക്ക് 40 ഇൻപുട്ട് വേരിയബിളുകൾ ഉണ്ടെങ്കിൽ 2 ടെസ്റ്റ് 2 കോമ്പിനേഷനുകൾ എന്നിവ പരിഗണിച്ചാൽ മിക്കവാറും എല്ലാ ബഗുകളും കണ്ടെത്തുമെന്നും ഞങ്ങൾ പരീക്ഷിക്കേണ്ടതില്ല അതിനാൽ ഞാൻ അത് വരയ്ക്കട്ടെ അതിനാൽ p 40 എന്ന് പറയാൻ നമുക്ക് p 1 p 2 വരെയുള്ള ഇൻപുട്ട് പാരാമീറ്റർ ഉണ്ട് ഓരോന്നും 1 അല്ലെങ്കിൽ 0 എടുക്കുന്നു ഈ സാധ്യമായ കോമ്പിനേഷൻ p 1 p 15 എന്നിവ രണ്ടും ക്രമീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് ഇതുപോലുള്ള മറ്റേതെങ്കിലും കോമ്പിനേഷനുകൾക്ക് 1 ഇത് 1 ഇത് 1 ഈ 1 മുതലായവയ്ക്ക് ഒരു പ്രശ്നവുമില്ല പ്രശ്നമില്ല ഇത്തരത്തിലുള്ള പ്രശ്നം കണ്ടുപിടിക്കാൻ നമ്മൾ ശരിക്കും പരീക്ഷണ കേസുകൾ സൃഷ്ടിക്കേണ്ടതുണ്ട് അത് എല്ലാ ജോഡി തിരിച്ചുള്ള മൂല്യങ്ങളും 1 15 സെറ്റ് 1 1 1 15 സെറ്റ് 0 1 1 15 സെറ്റ് 1 0 p 1 p 2 0 1 1 0 എന്നിങ്ങനെ സജ്ജമാക്കി അതിനാൽ ഇവിടെ ആവശ്യമായ ടെസ്റ്റ് കേസുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും കാരണം ഞങ്ങൾക്ക് 1 0 1 0 1 0 1 മുതലായവ പോലുള്ള ടെസ്റ്റ് കേസുകൾ ഉണ്ടായേക്കാം അതിനാൽ ഈ 1 ടെസ്റ്റ് കേസ് തന്നെ നിരവധി ജോഡി തിരിച്ചുള്ള മൂല്യങ്ങൾ 1 0 ഇവിടെ 0 1 1 0 തുടങ്ങിയവ അതിനാൽ സാധ്യമായ എല്ലാ മൂല്യങ്ങളുടെയും ജോടി തിരിച്ചുള്ള സംയോജനം സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ ടെസ്റ്റ് കേസുകളുടെ എണ്ണം 2 പാരാമീറ്ററുകൾ വളരെ കുറവായിരിക്കും അതിനാൽ 40 പരാമീറ്ററുകൾക്കും ഓരോന്നും 2 മൂല്യങ്ങൾ എടുക്കുന്നതിനും നമുക്ക് 2 മുതൽ 40 വരെ ടെസ്റ്റ് കേസുകൾ അല്ലെങ്കിൽ സാധ്യമായ മൂല്യങ്ങളുടെ എല്ലാ കോമ്പിനേഷനുകളും പരിഗണിക്കേണ്ടതുണ്ട് എന്നാൽ ജോഡി തിരിച്ചുള്ള മൂല്യങ്ങൾ മാത്രം പരിഗണിക്കുകയാണെങ്കിൽ സാധ്യമായ എല്ലാ ജോഡി തിരിച്ചുള്ള മൂല്യങ്ങളും പരീക്ഷയുടെ എണ്ണം കേസുകൾ 10 അല്ലെങ്കിൽ 12 ആയിരിക്കാം ഇത് അറിയാൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്കറിയില്ല പക്ഷേ ഞങ്ങൾക്ക് ഉപകരണങ്ങൾ ലഭ്യമാണ് ഞങ്ങൾക്ക് വളരെ ലളിതമായ ചെറിയ ഉപകരണങ്ങൾ നൽകി പ്രവർത്തിപ്പിച്ച് കണ്ടെത്താനാകും അവ നിങ്ങൾക്ക് ജോഡി തിരിച്ചുള്ള ടെസ്റ്റ് കേസുകൾ എല്ലാ ജോഡികളും നൽകും ടെസ്റ്റ് കേസുകൾ നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ നോക്കാം അതിനാൽ മറ്റ് വേരിയബിളുകളുടെ മൂല്യങ്ങൾ കണക്കിലെടുക്കാതെ 2 അല്ലെങ്കിൽ 3 വേരിയബിളുകൾക്ക് മാത്രമേ ചില മൂല്യങ്ങളുള്ളൂ എന്ന അനുമാനം ടെസ്റ്റ് കേസുകളുടെ എണ്ണം കുറയ്ക്കുകയും പരീക്ഷണാത്മകമായി ധാരാളം സോഫ്റ്റ്വെയറുകളിൽ പരീക്ഷിക്കുകയും ചെയ്യുന്നു ഇത് ശരിക്കും ആണെന്ന് കണ്ടെത്തി നമ്മൾ രണ്ടോ അതിലധികമോ കോമ്പിനേഷനുകൾ പരിഗണിക്കുമ്പോൾ മിക്കവാറും എല്ലാ ബഗുകളും കണ്ടെത്താനാകും അതിനാൽ 2 കൊണ്ട് വലിയ സോഫ്റ്റ്വെയറിന് ഇതിനകം 80 ശതമാനം ബഗുകൾ ലഭിച്ചേക്കാം നിങ്ങൾ 3 കോമ്പിനേഷനുകൾ പരിഗണിക്കുമ്പോൾ ഞങ്ങൾക്ക് 90 ശതമാനവും 4 അല്ലെങ്കിൽ 5 ഉം ലഭിച്ചേക്കാം ഞങ്ങൾക്ക് എല്ലാ ബഗുകളും ലഭിച്ചേക്കാം അവരുടെ 40 പരാമീറ്ററുകൾ 40 ഉം പരിഗണിക്കേണ്ടതില്ലെങ്കിൽ ഞങ്ങൾക്കില്ല പരീക്ഷണാത്മകമായി അത് കാണിച്ചിരിക്കുന്നു ഈ ജോടി തിരിച്ചുള്ള പരിശോധനയിൽ ഞങ്ങൾ എങ്ങനെയാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്നും ഈ ജോഡി തിരിച്ചുള്ള ടെസ്റ്റ് കേസുകൾ ഞങ്ങൾ എങ്ങനെ സ്വമേധയാ സൃഷ്ടിക്കുന്നുവെന്നും വിശദാംശങ്ങൾ നോക്കാം തീർച്ചയായും നിങ്ങൾ പരാമീറ്ററുകളുടെ എണ്ണം ഇൻപുട്ട് ചെയ്യുന്ന ഉപകരണങ്ങൾ ലഭ്യമാണെന്ന് അവർ പറഞ്ഞു അത് നിങ്ങൾക്ക് ടെസ്റ്റ് കേസുകൾ നൽകും അതിനാൽ ജോഡി തിരിച്ചുള്ള ടെസ്റ്റിംഗ് എന്തുകൊണ്ടാണ് പ്രധാന ആശയം എന്നത് ചില ഘടകങ്ങളുടെ ഇടപഴകൽ മൂലമാണ് തെറ്റ് സംഭവിക്കുന്നത് എന്നതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് അവബോധപൂർവ്വം മനസ്സിലാക്കണമെങ്കിൽ പ്രോഗ്രാം കോഡ് നോക്കിയാൽ സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും പരിഗണിക്കുകയാണെങ്കിൽ ഇവയിൽ ഓരോന്നിനും കേസുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് കോമ്പിനേഷനുകൾ മാത്രം പരിഗണിക്കുന്ന പ്രസ്താവനകൾ ഉണ്ടെങ്കിൽ മാത്രം വ്യവസ്ഥകളുടെ പലിശ നിരക്ക് തുക മാസങ്ങൾ തുടർന്ന് ഡൌൺ പേയ്മെന്റ് പേയ്മെന്റ് ആവൃത്തി എന്നിവ ഈ ഉദാഹരണം നമുക്ക് പരിഗണിക്കാം അതിനാൽ ഒരു സമയത്ത് നിങ്ങൾ എത്രമാത്രം പണമടയ്ക്കുന്നു പേയ്മെന്റ് ആവൃത്തി എത്രയാണ് പലിശ നിരക്ക് ബാധകമാകുന്നത് വ്യത്യസ്തമാകുന്ന ഒരു വായ്പയ്ക്കുള്ള ഈ വിവിധ പാരാമീറ്ററുകൾ നൽകുന്നത് എന്നിവയാണ് ഡൌൺ പേയ്മെന്റ് അതിനാൽ തുകയ്ക്ക് മാസങ്ങളുടെ എണ്ണം എത്രയാണ് ഡൌൺ പേയ്മെന്റും പേയ്മെന്റ് ആവൃത്തിയും അതിനാൽ ഇവയുടെ വിവിധ കോമ്പിനേഷനുകൾ നിലവിലുണ്ട് ഇവയിൽ ജോഡികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിഗണിക്കാം പലിശ നിരക്കും ഡൌൺ പേയ്മെന്റും മാസവും പേയ്മെന്റ് ആവൃത്തിയും മറ്റും പറയുക അപ്പോൾ ഞങ്ങൾ എല്ലാ ബഗുകളും കണ്ടെത്തുമായിരുന്നു കൂടാതെ കുറയ്ക്കലിന്റെ എണ്ണവും ആവശ്യമായ ടെസ്റ്റ് കേസുകളുടെ എണ്ണവും ശരിക്കും നാടകീയമാണ് ഇവിടെ കാണുക ഇൻപുട്ടുകളുടെ എണ്ണം 7 ആണെങ്കിൽ ഓരോന്നും 1 ന് 2 മൂല്യങ്ങൾ എടുക്കാം ഇവ ബൂലിയൻ 7 ബൂലിയൻ ഇൻപുട്ടുകൾ പിന്നെ കോമ്പിനേഷനുകളുടെ എണ്ണം 2 മുതൽ പവർ 7 വരെ 128 ആണ് എന്നാൽ ജോഡി തിരിച്ചുള്ള ടെസ്റ്റ് സെറ്റിന്റെ വലുപ്പം നിങ്ങൾക്ക് 8 13 ഇൻപുട്ടുകളും ഓരോ ടെസ്റ്റും 3 ഉണ്ടെങ്കിൽ കോമ്പിനേഷനുകളുടെ എണ്ണം 3 മുതൽ പവർ 13 വരെ 10 ൽ 1 6 ആണ് പവർ 6 എന്നാൽ പിന്നീട് ജോഡി തിരിച്ചുള്ള ടെസ്റ്റിന്റെ വലുപ്പം 15 ആണ് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ദശലക്ഷം കാണുക 1 6 മില്യൺ അത് 40 ആണെങ്കിൽ ഓരോന്നും 1 എടുക്കുന്നു 3 ആവശ്യമായ ടെസ്റ്റ് കേസുകളുടെ എണ്ണം എത്രയാണെന്ന് ഇവിടെ നോക്കൂ ഈ കോമ്പിനേഷനുകളിൽ ഓരോന്നും പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ആർക്കും അത്തരമൊരു സംവിധാനം പരീക്ഷിക്കാനാകില്ല എന്നാൽ നമ്പർ ജോഡി തിരിച്ചുള്ള ടെസ്റ്റ് കേസുകളുടെ എണ്ണം 21 ആണ് കൈകാര്യം ചെയ്യാവുന്ന ഒരാൾക്ക് 21 ടെസ്റ്റ് കേസുകൾ നടത്താം എന്നാൽ 7 ഇൻപുട്ടിനും ഓരോന്നിനും 2 എടുക്കുമ്പോൾ എനിക്ക് 8 ഉം ഈ 15 ന് എനിക്ക് 21 ഉം ലഭിക്കുമെന്ന് എനിക്ക് എങ്ങനെ അറിയാം എന്ന് നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം ഇതിനായി വ്യത്യസ്ത എണ്ണം ടെസ്റ്റ് കേസുകൾ സൃഷ്ടിക്കുക അതിനാൽ എത്ര ജോടി തിരിച്ചുള്ള ടെസ്റ്റ് കേസുകൾ ആവശ്യമാണെന്ന് കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമാണ് കാരണം വ്യത്യസ്ത ഉപകരണങ്ങൾക്ക് അവ പ്രവർത്തിപ്പിക്കുന്ന അൽഗോരിതം അനുസരിച്ച് വ്യത്യസ്ത ടെസ്റ്റ് കേസുകൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ നമുക്ക് മലകയറ്റ കോമ്പിനേറ്ററിയൽ അൽഗോരിതങ്ങൾ ഉണ്ടായിരിക്കാം ജനിതക അൽഗോരിതം പോലുള്ള ഒപ്റ്റിമൈസേഷൻ അതിനാൽ നമുക്ക് ഒപ്റ്റിമൽ ടെസ്റ്റ് കേസുകൾക്ക് അടുത്തെത്താം ഇനി നമുക്ക് ഇതിന്റെ നിസ്സാരത നോക്കാം അതിനാൽ ഇൻപുട്ട് മൂല്യങ്ങളുടെ ചില കോമ്പിനേഷനുകൾ മൂലമാണ് ഒരു പ്രോഗ്രാമിലെ ടി വേ ഇടപെടൽ തെറ്റ് എന്ന് ഞങ്ങൾ അതിനെ വിളിക്കുന്നു നമുക്ക് n ഇൻപുട്ട് മൂല്യങ്ങൾ ഉണ്ടായിരിക്കാം n 40 അല്ലെങ്കിൽ 50 ആയിരിക്കാം അതിൽ നിന്ന് ചില നിർദ്ദിഷ്ട മൂല്യങ്ങൾ 1 0 1 ഉള്ളപ്പോൾ 3 ഇൻപുട്ട് മൂല്യങ്ങൾ മാത്രം പറയട്ടെ പ്രശ്നം സംഭവിക്കുന്നു 1 നിർദ്ദിഷ്ട പരാമീറ്റർ ശരിയാണോ തെറ്റാണോ എന്ന് സജ്ജമാക്കുന്നിടത്തോളം പ്രശ്നം സംഭവിക്കുകയും ജോഡി തിരിച്ചുള്ള തെറ്റ് 2 വഴി തെറ്റുകൾ ആകുകയും ചെയ്യുന്നിടത്തോളം 1 വേ തെറ്റിലെ 1 വേ തെറ്റ് ആണ് ഏറ്റവും ലളിതമായ ടി വേ തെറ്റ് ഈ പദാവലി അനുസരിച്ച് ഇൻപുട്ട് പരാമീറ്ററുകളുടെ സംയോജനമാണ് ഒരു ടി വേ തെറ്റ് സംഭവിക്കുന്നത് നിങ്ങൾ പറയുന്നതുപോലെ ഞങ്ങൾ 5 വഴി തെറ്റ് വരെ പരിഗണിക്കുകയാണെങ്കിൽ സാധ്യമായ എല്ലാ ബഗുകളും പ്രായോഗിക സോഫ്റ്റ്വെയറിലും പരീക്ഷണമായും കണ്ടെത്തുമായിരുന്നു സോഫ്റ്റ്വെയർ തകരാറുകളിൽ ഭൂരിഭാഗവും ലളിതവും ജോഡി തിരിച്ചുള്ളതുമായ തകരാറുകൾ ഉൾക്കൊള്ളുന്നുവെന്ന് കാണിക്കുന്നു വളരെ വലിയ സോഫ്റ്റ്വെയർ സങ്കീർണ്ണവും വലുതുമായ സോഫ്റ്റ്വെയറുകൾക്കുപോലും ജോഡി തിരിച്ചുള്ള തെറ്റുകൾ ഞങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ 80 90 ശതമാനം പ്രശ്നങ്ങളും ഞങ്ങൾ കണ്ടെത്തുമായിരുന്നു 3 വേ അല്ലെങ്കിൽ 4 വേ പരിഗണിക്കുക നിലവിലുള്ള മിക്കവാറും എല്ലാ ബഗുകളും ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നു കൂടാതെ ടെസ്റ്റ് കേസുകളുടെ എണ്ണം വളരെ കുറയ്ക്കുകയും ചെയ്യും ഇപ്പോൾ ഒരൊറ്റ മോഡ് ബഗിന്റെ ഒരു ഉദാഹരണം നോക്കാം അതിനാൽ മറ്റെല്ലാ പരാമീറ്ററുകളുടെയും ക്രമീകരണം നമുക്ക് പരിഗണിക്കാതെ ഒരു പാരാമീറ്ററിൽ ചിലത് ചില മൂല്യങ്ങളിലേക്ക് സജ്ജമാക്കുമ്പോൾ ഒരൊറ്റ മോഡ് ബഗ് സംഭവിക്കുന്നു പ്രിന്റർ ടൈപ്പും മറ്റ് തിരഞ്ഞെടുത്ത ഓപ്ഷനും പരിഗണിക്കാതെ പ്രിന്റർ ഡയലോഗ് ബോക്സിൽ ഡ്യുപ്ലെക്സ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ പ്രിൻറ് ഔട്ട് എപ്പോഴും സ്മിയർ ചെയ്യപ്പെടുന്ന ഒരു ഉദാഹരണം നോക്കുക അതിനാൽ നിങ്ങൾ ഉള്ളിടത്തോളം കാലം ഇൻപുട്ട് ചെക്ക് ബോക്സുകളിലൊന്ന് പരിശോധിക്കുക മറ്റെല്ലാ ചെക്കിംഗും പരിഗണിക്കാതെ പ്രശ്നം സംഭവിക്കുന്നു നിങ്ങൾ അത് പരിശോധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ മൂല്യം ഡ്യുപ്ലെക്സ് ഓപ്ഷൻ സജ്ജമാക്കിയിട്ടില്ലെങ്കിൽ മറ്റ് പാരാമീറ്ററുകളുടെ സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല അതിനാൽ ഇത് ഒരു സിംഗിൾ മോഡ് ബഗ് ആണ് കാരണം ഇത് ഒരൊറ്റ പാരാമീറ്റർ ക്രമീകരിക്കുന്നതിലൂടെ ഉണ്ടാകുന്നതാണ് പ്രശ്നം ഇരട്ട മോഡ് തെറ്റ് അല്ലെങ്കിൽ രണ്ട് ഓപ്ഷനുകൾ സംയോജിപ്പിക്കുമ്പോൾ 2 വഴി തെറ്റ് സംഭവിക്കുന്നു ഉദാഹരണത്തിന് ഡ്യുപ്ലെക്സ് ഉള്ളപ്പോൾ മാത്രം പ്രിന്റ് smeട്ട് പുരട്ടുന്നു തിരഞ്ഞെടുത്തതും പ്രിന്റർ മോഡൽ 394 ആണ് ഈ പരാമീറ്ററുകളിൽ 2 ന് പ്രത്യേക മൂല്യം ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നം ഉണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ മറ്റ് കോമ്പിനേഷനുകളില്ലെങ്കിൽ ഒരു മൾട്ടി മോഡ് തെറ്റ് 3 അല്ലെങ്കിൽ ക്രമീകരണങ്ങളിൽ പ്രശ്നം സംഭവിക്കുന്നു 3 അല്ലെങ്കിൽ മോഡ് പാരാമീറ്ററുകൾക്ക് നിർദ്ദിഷ്ട ക്രമീകരണം പ്രശ്നമുണ്ടാക്കി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണ പരിപാടി നോക്കാം എന്തുകൊണ്ടാണ് ഈ മിക്ക പ്രശ്നങ്ങളും 2 വഴി പ്രശ്നങ്ങൾ അതിനാൽ ഇത് എന്തെങ്കിലും നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അത് നിരവധി പാരാമീറ്ററുകൾ ഉണ്ടോയെന്ന് പരിശോധിക്കുന്നു കൂടാതെ ഇത് 3 പരാമീറ്ററുകൾ മാത്രം പരിഗണിക്കുന്നു തുടർന്ന് ഇത് x 1 y യ്ക്ക് തുല്യമാണെങ്കിൽ x 1 പരിശോധിക്കുന്നു 2 അപ്പോൾ അത് f xyz ആണ് ഇത് x എന്നത് x 2 ന് തുല്യമാണെങ്കിൽ y y 1 ന് തുല്യമാണെങ്കിൽ ഔട്ട്പുട്ട് gxy ആണ് അതിനാൽ ഈ സമയത്ത് x സമം x 2 ഉം y y ഉം 2 ഉം തുല്യമാണെങ്കിൽ ഈ പ്രസ്താവന എഴുതാൻ പ്രോഗ്രാമർ നഷ്ടപ്പെട്ടു ഞാൻ ഇവിടെ y 2 എഴുതണം അപ്പോൾ ഇൻപുട്ട് xyz മൈനസ് gxy അല്ലാതെ ഔട്ട്പുട്ട് f xyz പ്ലസ് gxy ആയിരിക്കണം കാരണം അയാൾക്ക് ഈ x നഷ്ടമായത് x 1 നും y y യ്ക്കും തുല്യമാണ് അതിനാൽ പ്രശ്നം സംഭവിക്കും അതിനാൽ പ്രോഗ്രാമർ ഒന്നുകിൽ ഒന്ന് മറന്നേക്കാം ക്ലാസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരുപക്ഷേ ക്ലാസിന്റെ പ്രവർത്തന ഭാഗത്ത് എന്തെങ്കിലും തെറ്റായി എഴുതിയിരിക്കാം അതിനാൽ ആ സന്ദർഭങ്ങളിൽ നിർദ്ദിഷ്ട ക്രമീകരണങ്ങൾ നൽകുമ്പോൾ മാത്രമേ അത് പ്രശ്നമുണ്ടാക്കൂ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ പരീക്ഷിക്കേണ്ട മറ്റൊരു ഉദാഹരണമാണിത് വിവിധ പാരിസ്ഥിതിക ക്രമീകരണങ്ങൾക്കായി ഓപ്പറേറ്റിംഗ് സിസ്റ്റം പരീക്ഷിക്കേണ്ടതുണ്ട് അതിനാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്രമീകരിച്ചിരിക്കുന്നത് ഹാർഡ് കീബോർഡ് മറച്ചിരിക്കുന്നു സജ്ജീകരിക്കേണ്ടതില്ല അല്ലെങ്കിൽ ഹാർഡ് കീബോർഡ് മറയ്ക്കാത്തവിധം മറച്ചിരിക്കുന്നു സ്ക്രീൻ ലേയൌട്ട് വലുതാണ് അല്ലെങ്കിൽ ഇത് സാധാരണമാണ് അല്ലെങ്കിൽ അത് ചെറുതാണ് അല്ലെങ്കിൽ ഇത് സജ്ജീകരിക്കണം ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ പോർട്രെയ്റ്റ് ആയ ഓറിയന്റേഷൻ അതിനാൽ ഒരു നിർദ്ദിഷ്ട ഫോൺ സെറ്റിനായുള്ള Android നായുള്ള കോൺഫിഗറേഷനാണിത് ഇപ്പോൾ വ്യത്യസ്ത മൂല്യങ്ങൾ എടുക്കാൻ കഴിയുന്ന ഈ വേരിയബിളുകൾ ഞങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ അതിനാൽ ഞങ്ങൾക്ക് 172800 ടെസ്റ്റ് കേസുകളുണ്ട് അതിനാൽ വളരെയധികം പക്ഷേ നിങ്ങൾക്ക് ജോഡി തിരിച്ചുള്ള പരിശോധന 3 വേ ടെസ്റ്റിംഗ് 4 വേ ടെസ്റ്റിംഗ് 5 വേ ടെസ്റ്റിംഗ് എന്നിവ പരീക്ഷിക്കാൻ കഴിയും അതിലൂടെ ഞങ്ങൾക്ക് മിക്കവാറും എല്ലാ ബഗുകളും ലഭിക്കുമായിരുന്നു എന്നാൽ പിന്നീട് ഞങ്ങൾ ഇതുവരെ ഉത്തരം നൽകാത്തത് ജോഡി തിരിച്ചുള്ള ടെസ്റ്റ് കേസുകൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് നമുക്ക് ചില ലളിതമായ അൽഗോരിതം ഉണ്ടോ അതിലൂടെ ഒരു കൂട്ടം പരാമീറ്ററുകളും ഈ പരാമീറ്ററുകൾക്ക് എടുക്കാവുന്ന മൂല്യങ്ങളും നമുക്ക് ലഭിക്കുമോ നമുക്ക് ജോഡി തിരിച്ചുള്ള ടെസ്റ്റ് ലഭിക്കുമോ കേസുകൾ ജോഡി തിരിച്ചുള്ള ടെസ്റ്റ് കേസുകളുടെ പരമാവധി എണ്ണം സൃഷ്ടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമാണെന്നും പരിണാമ അൽഗോരിതങ്ങൾ ജനിതക അൽഗോരിതങ്ങൾ മുതലായവ നമുക്ക് പരീക്ഷിക്കാമെന്നും ഞാൻ പറയുന്നു എന്നാൽ നമുക്ക് ഒരു ലളിതമായ അൽഗോരിതം നോക്കാം അത് നമുക്ക് ജോഡി തിരിച്ചുള്ള പരീക്ഷയുടെ ഭൂരിഭാഗവും നൽകും ഞാൻ ഉദ്ദേശിക്കുന്നത് ജോഡി തിരിച്ചുള്ള ടെസ്റ്റ് കേസുകളുടെ ഒപ്റ്റിമൽ അല്ലാത്ത എണ്ണം വേരിയബിളുകൾ എന്താണെന്ന് തിരിച്ചറിയുക എന്നതാണ് ആദ്യ കാര്യം 2 മൂല്യങ്ങൾ പോർട്രെയിറ്റും ലാൻഡ്സ്കേപ്പും എടുക്കാൻ കഴിയുന്ന ഇൻപുട്ട് പാരാമീറ്ററിന്റെ 1 ആയി നമുക്ക് ഓറിയന്റേഷൻ ഉണ്ടെന്ന് പറയാം ഞങ്ങൾക്ക് 3 മൂല്യങ്ങൾ എടുക്കാവുന്ന മറ്റൊരു പാരാമീറ്ററായി സ്ക്രീനും 2 മൂല്യങ്ങൾ എടുക്കാൻ കഴിയുന്ന മറ്റൊരു പാരാമീറ്ററുമാണ് കീബോർഡ് അതിനാൽ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് ഈ പട്ടിക ക്രമീകരിക്കുക ഇവയാണ് ഇൻപുട്ട് പാരാമീറ്റർ പട്ടിക ഏറ്റവും വലിയ മൂല്യം എടുക്കുന്ന പാരാമീറ്റർ ഞങ്ങൾ ആദ്യം പരിഗണിക്കുന്ന തരത്തിൽ ഞങ്ങൾ ഈ പട്ടിക ക്രമീകരിക്കുന്നു അവയിൽ വലിയത് എടുക്കുന്ന 2 ഉണ്ടെങ്കിൽ അവയിൽ ഏതെങ്കിലും 1 പരിഗണിക്കും തുടർന്ന് ഞങ്ങൾ അടുത്ത 1 ഉം മറ്റും ക്രമീകരിക്കുന്നു അതിനാൽ ഇൻപുട്ട് മൂല്യങ്ങളുടെ ഈ പട്ടിക ഞങ്ങൾ പുന ക്രമീകരിക്കുന്നു അതായത് ഇടതുവശത്തെ ഏറ്റവും നിരയിലെ ഏറ്റവും കൂടുതൽ മൂല്യങ്ങൾ അത് എടുക്കുന്നു അതിനാൽ ഇവിടെ ഒരു സമഗ്രമായ പരിശോധന 2 മുതൽ 3 വരെ 2 എണ്ണം ടെസ്റ്റ് കേസുകൾ പരിഗണിക്കും പക്ഷേ നമുക്ക് ജോഡി തിരിച്ചുള്ള ടെസ്റ്റ് കേസ് സൃഷ്ടിക്കാൻ കഴിയും അത് അതിനേക്കാൾ വളരെ കുറവായിരിക്കും ഞങ്ങൾ ആദ്യം ചെയ്തത് ഇൻപുട്ട് പാരാമീറ്ററുകൾ ക്രമീകരിച്ചു ആദ്യം ക്രമീകരിച്ച പരമാവധി മൂല്യങ്ങളുടെ പരമാവധി എണ്ണം എടുക്കുന്ന ഒന്ന് അടുത്തത് പരാമീറ്ററുകളുള്ള ഒന്ന് തുടർന്ന് ഈ പാരാമീറ്ററുകളുടെ എണ്ണത്തിന് തുല്യമോ തുല്യമോ ഉള്ളത് അത് ഓർക്കുക ഇതൊരു ഹ്യൂറിസ്റ്റിക് മാത്രമാണ് ഞങ്ങൾ സ്വമേധയാ ടെസ്റ്റ് കേസുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു ടെസ്റ്റ് കേസുകളുടെ പരമാവധി എണ്ണം നൽകേണ്ടതില്ല കൂടാതെ ഞങ്ങൾ സ്വമേധയാ പരിശോധിക്കേണ്ടതുണ്ട് ടെസ്റ്റ് കേസുകൾ എല്ലാം ശരിയാണെങ്കിൽ അല്ലാത്തപക്ഷം നിങ്ങൾ അത് സ്വമേധയാ ശരിയാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഞങ്ങൾ ക്രമീകരിച്ച അടുത്ത ഘട്ടത്തിൽ പരമാവധി മൂല്യങ്ങൾ എടുക്കുന്ന പാരാമീറ്റർ ഞങ്ങൾ എടുത്തു മറ്റ് പാരാമീറ്ററിന് ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് 2 മൂല്യങ്ങൾ എടുക്കുന്നു അതിനാൽ ഇവയിൽ 2 വലുത് വലുത് ചെറുത് ചെറുത് സാധാരണ സാധാരണ എന്നിവ ഞാൻ എഴുതിയിട്ടുണ്ട് അതിനുശേഷം ഞങ്ങൾ ഇതര ഛായാചിത്രം ലാൻഡ്സ്കേപ്പ് പോർട്രെയ്റ്റ് ലാൻഡ്സ്കേപ്പ് പോർട്രെയിറ്റ് ലാൻഡ്സ്കേപ്പ് എന്നിവ എഴുതി അടുത്ത ഘട്ടത്തിൽ ഞങ്ങൾ മൂന്നാമത്തെ പാരാമീറ്റർ എടുക്കുകയും ബദലായി QWERTY 12 കീ QWERTY 12 കീ മുതലായവ എഴുതുകയും തുടർന്ന് കൂടുതൽ വേരിയബിളുകൾ ഇവിടെ ചേർക്കുകയും ചെയ്യാം പക്ഷേ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് എല്ലാ ജോഡികളും സ്വമേധയാ ഉള്ളതാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ചില മാറ്റങ്ങൾ വരുത്തുന്നു അതിനാൽ സ്ക്രീനിനും കീബോർഡ് സ്ക്രീനിനും ഓറിയന്റേഷനും ഓറിയന്റേഷനും കീബോർഡും തമ്മിലുള്ള ഓരോ ജോഡി മൂല്യങ്ങളും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഈ മൂല്യങ്ങൾ ഇവിടെ അല്പം ക്രമീകരിക്കുന്നു അതിനാൽ ഞങ്ങൾക്ക് ഒരു ജോടി മൂല്യങ്ങൾ ലഭിക്കുകയോ അല്ലെങ്കിൽ സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും സൃഷ്ടിക്കുന്നതിന് അധിക വരികൾ ഇവിടെ ചേർക്കാൻ കഴിയും അതിനാൽ ഞങ്ങൾക്ക് വലുതും പോർട്രെയ്റ്റും ഉണ്ട് ഞങ്ങൾക്ക് ലാൻഡ്സ്കേപ്പും വലുതും ഉണ്ട് ഞങ്ങൾക്ക് QWERTY ഉം വലുതും ഉണ്ട് ഞങ്ങൾക്ക് 12 കീയും വലുതും ഉണ്ട് ഞങ്ങൾക്ക് പോർട്രെയിറ്റും QWERTY ഉം ഉണ്ട് എന്നാൽ ലാൻഡ്സ്കേപ്പിനെക്കുറിച്ചും QWERTY യെക്കുറിച്ചും അതെ ഇവിടെയുണ്ട് അതിനാൽ ഞങ്ങൾ ഇവിടെ മൂല്യങ്ങൾ എഴുതുന്നു സമാനമായി മറ്റ് പാരാമീറ്ററുകൾക്കായി ഞങ്ങൾ എന്തെങ്കിലും പ്രത്യേക കോമ്പിനേഷനുകൾ കാണുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ അധിക നിയമങ്ങൾ ചേർക്കാൻ ശ്രമിക്കുന്നു അതിനാൽ എല്ലാ ജോഡി പരിശോധനകൾക്കും ടെസ്റ്റ് കേസുകൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു മാനുവൽ മാർഗമാണിത് അതിനാൽ നമുക്ക് ജോഡികൾ ചേർക്കുന്നത് തുടരുകയും സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും നിലവിലുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുകയും ചെയ്യാം ഒടുവിൽ ഡ്യൂപ്ലിക്കേറ്റ് ടെസ്റ്റ് കേസുകൾ ഉണ്ടായേക്കാം ഞങ്ങൾ എണ്ണം കുറച്ച് കുറയ്ക്കാൻ ശ്രമിക്കുന്നു അതിനാൽ ടെസ്റ്റ് കേസുകൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു മാനുവൽ അൽഗോരിതം ആണ് ഇത് എന്നാൽ അവ ലഭ്യമാണെന്ന് പറയുന്നതുപോലെ നിരവധി ചെറിയ ഉപകരണങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് അവ ഡൌൺലോഡ് ചെയ്ത് പ്രവർത്തിപ്പിച്ച് ഇൻപുട്ട് പാരാമീറ്ററുകളും സാധ്യമായ മൂല്യങ്ങളും നൽകാം ഇത് നിങ്ങൾക്ക് കൃത്യമായ ടെസ്റ്റ് കേസുകൾ നൽകും ഗൂഗിൾ പിഐസിടിയിൽ നിങ്ങൾക്ക് നോക്കാനാകുന്ന ഉപകരണങ്ങൾ വിൻഡോസിലാണ് പ്രവർത്തിക്കുന്നത് കൂടാതെ ലിനക്സ് പ്ലാറ്റ്ഫോമുകളിൽ ജെന്നി ഓപ്പൺ സോഴ്സ് സി പ്രോഗ്രാം നിങ്ങൾക്ക് ജെന്നി പ്രോഗ്രാം കാണാൻ കഴിയും അത് ചെറിയ സി പ്രോഗ്രാം സാധ്യമായ 100 200 ലൈനുകൾ നിങ്ങൾ സോഴ്സ് കോഡ് ഡൌൺലോഡ് ചെയ്ത് പ്രവർത്തിപ്പിക്കുക തുടർന്ന് എല്ലാ ജോഡികളും മറ്റൊരു ഉപകരണമാണ് നിരവധി ടൂളുകൾ ലഭ്യമാണ് ചെറിയ ടൂളുകൾ ഉണ്ട് അവിടെ നിങ്ങൾക്ക് ടെസ്റ്റ് കേസുകളുടെ എണ്ണം നൽകാം ഇൻപുട്ട് പാരാമീറ്ററിന്റെ വ്യത്യസ്ത മൂല്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ശ്രമിക്കുമെന്ന് ഞാൻ പറഞ്ഞതുപോലെ ഓരോ പാരാമീറ്ററും വ്യത്യസ്ത മൂല്യങ്ങൾ എടുക്കുന്നു ഈ ഉപകരണങ്ങൾ അവർക്ക് വ്യത്യസ്ത പരീക്ഷണ കേസുകൾ നൽകിയേക്കാം കാരണം അവ വ്യത്യസ്ത അൽഗോരിതങ്ങൾ ഉപയോഗിച്ചേക്കാം എന്തായാലും നിങ്ങൾ ഈ ഉപകരണം ഡൌൺലോഡ് ചെയ്ത് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അത് ഉപയോഗപ്രദമാകും അത് വളരെ എളുപ്പമുള്ള ചെറിയ ഉപകരണമാണ് ഇവയിൽ മിക്കതിനും ഒരു ജിയുഐ പോലുമില്ല ആ ടെസ്റ്റ് ഇന്റർഫേസ് അതിനാൽ ദയവായി അത് ചെയ്യുക അടുത്ത സെഷനിൽ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും